ഗെഫി ഒരു ഓപ്പൺ സോഴ്സ് നെറ്റ്വർക്ക് വിശകലനവും വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയറുമാണ് അക്കഡെമിയ ജേണലിസം ഡിജിറ്റൽ ഹ്യുമാനിറ്റീസ് മുതലായവയിലെ നിരവധി ഗവേഷണ പദ്ധതികളിൽ ഗെഫി വ്യാപകമായി ഉപയോഗിക്കുന്നു ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളുടെ ഡാറ്റ നൽകാനും ഗ്രാഫുകളും ക്ലസ്റ്ററുകളും സൃഷ്ടിക്കാനും ജെഫിക്ക് കഴിയും ഈ ട്യൂട്ടോറിയലിൽ ഗെഫി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ വിശദമായി പഠിക്കും ഗെഫിയിൽ ഡാറ്റ എങ്ങനെ ലോഡ് ചെയ്യാമെന്ന് മനസിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം ജിഎംഎൽ ഗ്രാഫ്എംഎൽ പജെക് നെറ്റ് ഫയൽ യുസി നെറ്റ് ഡിഎൽ ഫയലുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഫയൽ ഫോർമാറ്റുകൾ ജെഫിക്ക് വായിക്കാനാകും ഫയലിലേക്ക് പോയി ഓപ്പൺ ക്ലിക്കുചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവയിലേതെങ്കിലും തുറക്കാനാകും ഡ്രോപ്പ് ഡൌൺ മെനുവിൽ ക്ലിക്കുചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്തുണയ്ക്കുന്ന ഫയൽ ഫോർമാറ്റുകളുടെ പൂർണ്ണമായ പട്ടികയും നോക്കാവുന്നതാണ് ഗെഫിക്ക് എക്സൽ സിഎസ്വി ഫയലുകൾ വായിക്കാനും കഴിയും സിഎസ്വി ൽ നിന്ന് ഡാറ്റ ഇറക്കുമതി ചെയ്യുന്നതിന് നിങ്ങൾ സാധാരണയായി രണ്ട് ഫയലുകൾ തയ്യാറാക്കേണ്ടതുണ്ട് ഒന്നിൽ നോഡുകളും അവയുടെ ആട്രിബ്യൂട്ടുകൾ ഉള്ളതും മറ്റൊന്നിൽ എഡ്ജ് ലിസ്റ്റും എഡ്ജ് ആട്രിബ്യൂട്ടുകൾ ഉള്ളതുമാണ് നോഡുകൾ അടങ്ങുന്ന സിഎസ്വി ഫയലിൽ പ്രത്യേക നോഡ് ഐഡികൾ അടങ്ങിയ ഐഡി എന്ന കോളം ഉൾപ്പെടുത്തേണ്ടതുണ്ട് എഡ്ജ് ലിസ്റ്റ് സിഎസ്വിയിൽ ഓരോ എഡ്ജിന്റെയും ആരംഭത്തിന്റെയും അവസാനത്തിന്റെയും നോഡ് ഐഡികൾ അടങ്ങിയ സോർസ് ടാർഗെറ്റും എന്ന തലക്കെട്ടുകൾ ഉണ്ടായിരിക്കണം ഇതുകൂടാതെ ലക്ഷ്യമുള്ളതോ ലക്ഷ്യമില്ലാത്തതോ ആയ ഓരോ എഡ്ജുകളുടെയും തരം സൂചിപ്പിക്കുന്ന ടൈപ്പ് എന്ന ഒരു നിരയും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം സോഷ്യൽ നെറ്റ്വർക്ക് വിശകലനത്തെക്കുറിച്ചുള്ള മുൻ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇതിനകം തന്നെ ഗ്രാഫ്എംഎൽ ഫോർമാറ്റിനെക്കുറിച്ച് പഠിച്ചു ഈ ഡെമോയ്ക്കായി ഇതിനകം നിലവിലുള്ള ഒരു ജിഎംഎൽ ഫയൽ നമുക്ക് തുറക്കാം ഡാറ്റ ശരിയായ ഫോർമാറ്റിലാണെങ്കിൽ നോഡുകളുടെ എണ്ണം അരികുകളുടെ എണ്ണം എഡ്ജിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ എന്നിവയാണ് ജെഫി നിങ്ങൾക്ക് നൽകുന്നത് ഫയൽ വിജയകരമായി ഇംപോർട്ട് ചെയ്യുന്നതിന് ഒകെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ജെഫിയിലെ ഡാറ്റാ ലബോറട്ടറി ടാബിലേക്ക് പോയി നമുക്ക് ഡാറ്റ കാണാൻ കഴിയും വലതുവശത്ത് നോഡ്സ് എഡ്ജസ് എന്ന രണ്ട് ടാബുകളുള്ള ഒരു ഡാറ്റ പട്ടിക ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നോഡുകൾ നോഡ് ആട്രിബ്യൂട്ടുകൾ എന്നിവയ്ക്കായുള്ള ഡാറ്റ പട്ടിക നോഡുകൾ ടാബിൽ അടങ്ങിയിരിക്കുന്നു എഡ്ജ് ടാബിൽ എഡ്ജുകൾക്കും എഡ്ജ് ആട്രിബ്യൂട്ടുകൾക്കുമുള്ള ഡാറ്റ പട്ടിക അടങ്ങിയിരിക്കുന്നു എക്സൽ അല്ലെങ്കിൽ സിഎസ്വി ഫയലുകളിൽ നിന്ന് നേരിട്ട് നോഡുകളും എഡ്ജുകളും ഡാറ്റ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ട് സ്പ്രെഡ്ഷീറ്റ് ബട്ടണും നിങ്ങൾ ശ്രദ്ധിക്കുക ചുവടെയുള്ള പാനൽ ഡാറ്റ കോളങ്ങൾ കൈകാര്യം ചെയ്യാനും ഡാറ്റ പരിഷ്ക്കരിക്കാനും സഹായിക്കും വ്യക്തിഗത മൂല്യങ്ങളിൽ ക്ലിക്കുചെയ്ത് അവയുടെ പുതിയ മൂല്യങ്ങൾ ടൈപ്പുചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് നേരിട്ട് മാറ്റാനാകും ഉദാഹരണത്തിന് നമുക്ക് നോഡ്സ് ടേബിളിലേക്ക് പോകാം ആദ്യ നിരയിലെ സുഹൃത്തുക്കളുടെ എണ്ണം 186 ൽ നിന്ന് 188 ആയി മാറ്റാം ഇപ്പോൾ നെറ്റ്വർക്ക് അളവുകൾ കണക്കാക്കാനും നെറ്റ്വർക്ക് വിഷ്വലൈസേഷൻ സജ്ജീകരിക്കാനും നമുക്ക് ഓവർവ്യൂ ടാബ് നോക്കാം നിങ്ങൾ ഓവർവ്യൂ ടാബിൽ ക്ലിക്കുചെയ്തുകഴിഞ്ഞാൽ മധ്യഭാഗത്തെ ശൂന്യമായ സ്ഥലത്ത് നിങ്ങളുടെ ഡാറ്റയുടെ ദൃശ്യവൽക്കരണം ശ്രെദ്ധിക്കുക വിഷ്വലൈസേഷന്റെ നിറവും വലുപ്പവും ആട്രിബ്യൂട്ടുകളും മാറ്റുന്നതിന് ഓവർവ്യൂ ടാബിൽ രൂപം ലേഔട്ട് നിരവധി പാനലുകൾ തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ ഉണ്ട് നമുക്ക് അവ ഓരോന്നും ഓരോന്നായി നോക്കാം മുകളിലെ ഇടതുവശത്തുള്ള അപ്പിയറൻസ് ടാബ് വർഗ്ഗീയവും തുടർച്ചയായതുമായ ആട്രിബ്യൂട്ടുകളെ അടിസ്ഥാനമാക്കി നോഡ് എഡ്ജിൻറെ നിറവും വലുപ്പവും മാറ്റാൻ നിങ്ങളെ അനുവദിക്കുന്നു ഓപ്ഷനുകളിലൂടെ കടന്നുപോകുന്നതിലൂടെ നിങ്ങൾക്ക് വിവിധ വിഷ്വൽ പ്രോപ്പർട്ടികൾ തിരഞ്ഞെടുക്കാനാകും ലഭ്യമായ ലേഔട്ട് അൽഗോരിതങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് ഇഷ്ടാനുസൃതമാക്കാൻ ലേഔട്ട് ടാബ് നിങ്ങളെ സഹായിക്കും ദൃശ്യവൽക്കരണത്തിന്റെ ഇടതുവശത്തുള്ള വിവിധ ഓപ്ഷനുകൾ നോഡുകളുടെയും എഡ്ജുകളുടെയും സംവേദനാത്മക തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ സഹായിക്കുന്നു കൂടാതെ നോഡുകളുടെയും അരികുകളുടെയും വലുപ്പവും നിറവും സ്വമേധയാ മാറ്റാനും നിങ്ങളെ അനുവദിക്കുന്നു എഡ്ജ് പെൻസിലും നോഡ് പെൻസിലും നിങ്ങൾക്ക് നോഡുകളും എഡ്ജുകളും സ്വമേധയാ ചേർക്കാൻ സഹായിക്കും ചുവടെയുള്ള ഓപ്ഷനുകൾ നോഡുകളുടെയും എഡ്ജുകളുടെയും സവിശേഷതകളുടെ നിറവും വലുപ്പവും മാറ്റാൻ നിങ്ങളെ അനുവദിക്കുന്നു താഴെ വലതുവശത്തുള്ള ചെറിയ അപ്പ് അമ്പടയാളത്തിൽ ക്ലിക്കുചെയ്ത് താഴെയുള്ള പാനൽ വികസിപ്പിക്കാവുന്നതാണ് എല്ലാ നോഡുകളുടെയും അരികുകളിലും ലേബലുകളിലും പ്രയോഗിക്കുന്ന നിറവും വലുപ്പവും മറ്റ് സവിശേഷതകളും മാറ്റാൻ ഈ പാനൽ നിങ്ങളെ സഹായിക്കും ഇപ്പോൾ നമുക്ക് വലതുവശത്തുള്ള ഫിൽട്ടറുകളും സ്റ്റാറ്റിസ്റ്റിക്സ് ടാബും നോക്കാം നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്ന് നിർദ്ദിഷ്ട നോഡുകളും അരികുകളും തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾക്ക് ഫിൽട്ടറുകൾ പ്രയോഗിക്കാൻ കഴിയും നിർദ്ദിഷ്ട ഫിൽട്ടർ അന്വേഷണ സ്ഥലത്ത് വലിച്ചിടാനും ഡ്രോപ്പ് ചെയ്യാനും ഫിൽട്ടറുകൾ പ്രയോഗിക്കുന്നു ആട്രിബ്യൂട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി ഫിൽട്ടറുകൾ ഉണ്ട് ഉദാഹരണത്തിന് തുല്യ ആട്രിബ്യൂട്ട് മൂല്യങ്ങളുള്ള ഘടകങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈക്വൽ സഹായിക്കും വിഭജന ഫിൽട്ടർ നിങ്ങളെ വിവിധ തലത്തിലുള്ള ആട്രിബ്യൂട്ടുകൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും റേഞ്ച് ഫിൽട്ടർ ഉപയോഗിച്ച് ഒരു പ്രത്യേക ശ്രേണിയിലെ ആട്രിബ്യൂട്ട് മൂല്യങ്ങളുള്ള നോഡുകളും അരികുകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാകും ഉദാഹരണത്തിന് 100 മുതൽ 1000 വരെയുള്ള അനുയായികൾ അരികുകളെ അടിസ്ഥാനമാക്കിയുള്ള ഫിൽട്ടറുകൾ എഡ്ജ് വെയ്റ്റ് എഡ്ജ് ടൈപ്പ് സെൽഫ് ലൂപ്പുകൾ തുടങ്ങിയ വ്യത്യസ്ത ഗുണങ്ങളുള്ള എഡ്ജുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു ഘടകങ്ങൾ കെ കോറുകൾ ഡിഗ്രി ശ്രേണികൾ മുതലായ നെറ്റ്വർക്ക് ഘടന അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുന്നതിന് ടോപ്പോളജി ഫിൽട്ടർ അനുവദിക്കുന്നു മറ്റ് ഫിൽട്ടറുകൾ വ്യത്യസ്ത രീതികളിൽ സംയോജിപ്പിക്കാൻ ഓപ്പറേറ്റർ നിങ്ങളെ അനുവദിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ ഇൻറ്റർസെക്ഷൻ യൂണിയൻ കോംപ്ലിമെൻറ്റ് മുതലായവ കണ്ടെത്തുക ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ടാബ് നോക്കാം ഇത് നെറ്റ്വർക്ക് നോഡ് എഡ്ജ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാക്കാൻ ഉപയോഗിക്കുന്നു നിങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ടാബിൽ ക്ലിക്കുചെയ്തുകഴിഞ്ഞാൽ വ്യക്തിഗത റൺ ബട്ടണിൽ ക്ലിക്കുചെയ്ത് അതിന്റെ മൂല്യം കണക്കാക്കാൻ കഴിയുന്ന വ്യത്യസ്ത അളവുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങളുടെ ഡാറ്റയ്ക്കായി ഈ അളവുകളുടെ മൂല്യം കണക്കാക്കാൻ ശ്രമിക്കാം ശരാശരി ഡിഗ്രി കണക്കാക്കി നമുക്ക് ആരംഭിക്കാം നിങ്ങൾ റൺ ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ ഒരു ഡിഗ്രി റിപ്പോർട്ട് സൃഷ്ടിക്കപ്പെടും അത് ശരാശരി ഡിഗ്രി നിങ്ങളോട് പറയും ഇവിടെ ഇത് 17 577 ആണ് കൂടാതെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി വിതരണ ഗ്രാഫ് നൽകുന്നു അവിടെ x അക്ഷം ഡിഗ്രി വിതരണത്തിന്റെ മൂല്യമാണ് കൂടാതെ y മൂല്യം ആ പ്രത്യേക ഡിഗ്രി വിതരണമുള്ള നോഡുകളുടെ എണ്ണമാണ് അടുത്തതായി നമുക്ക് ശരാശരി ഭാരമുള്ള ഡിഗ്രി പ്രവർത്തിപ്പിക്കാം നമ്മുടെ ഡാറ്റയിൽ എഡ്ജുകളുടെ മൂല്യം ഒന്നാണ് അതിനാൽ ഗ്രാഫ് ഒരു നേർരേഖയാണ് അടുത്തതായി നമുക്ക് നെറ്റ്വർക്ക് വ്യാസം നോക്കാം എല്ലാ ജോഡി നോഡുകളും തമ്മിലുള്ള ശരാശരി ദൂരമാണ് നെറ്റ്വർക്ക് വ്യാസം നമുക്ക് ഒരു ഡയറക്റ്റഡ് നെറ്റ്വർക്ക് ഉള്ളതിനാൽ നമ്മൾ ഡയറക്ടഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഒകെ ക്ലിക്ക് ചെയ്യുക ഇത് ശരാശരി നെറ്റ്വർക്ക് വ്യാസം 9 ആണെന്ന് പറയുന്ന ഒരു ഗ്രാഫ് ദൂര റിപ്പോർട്ട് സൃഷ്ടിക്കും ഇപ്പോൾ നമുക്ക് ഗ്രാഫ് സാന്ദ്രത കണക്കാക്കാം ഗ്രാഫ് സാന്ദ്രത അളക്കുന്നത് നെറ്റ്വർക്ക് പൂർത്തിയാക്കാൻ എത്ര അടുത്തെന്നാണ് ഒരു സമ്പൂർണ്ണ നെറ്റ്വർക്ക് എന്നാൽ ഗ്രാഫിലെ എല്ലാ നോഡുകളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒകെ ക്ലിക്ക് ചെയ്യുക

ഇനി നമുക്ക് മോഡുലാരിറ്റി കണക്കാക്കാം മുമ്പത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലെ കമ്മ്യൂണിറ്റികൾക്കുള്ള അളവാണ് മോഡുലാരിറ്റി നമ്മുടെ ഡാറ്റയ്ക്കായി യൂസ് വെയ്റ്റ് എന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കില്ല കാരണം നമുക്ക് വെയ്റ്റഡ് ഗ്രാഫ് ഇല്ല കൂടാതെ ഒകെ ക്ലിക്ക് ചെയ്യുക ഇവിടെ കമ്മ്യൂണിറ്റികളുടെ എണ്ണം 18 ആണെന്നും മോഡുലാർറ്റി സ്കോർ 0 374 ആണെന്നും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമുക്ക് പേജ് റാങ്ക് കണക്കാക്കാം പേജ് റാങ്ക് അൽഗോരിതം അനുസരിച്ച് നിങ്ങൾക്ക് പി എപ്സിലോൺ മൂല്യങ്ങൾ മാറ്റാം അല്ലെങ്കിൽ ഡിഫോൾട്ടായി സൂക്ഷിച്ച് ഒകെ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ ഗ്രാഫുകൾക്കുള്ള പേജ് റാങ്ക് അൽഗോരിതം മൂല്യങ്ങൾ കണക്കാക്കും നമ്മുടെ ഡാറ്റയിൽ എത്ര കണക്റ്റുചെയ്ത ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ഒകെ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഡാറ്റയിൽ ശക്തമായി ബന്ധിപ്പിച്ചിട്ടുള്ള 65 ഘടകങ്ങളും ദുർബലമായി ബന്ധിപ്പിച്ചിട്ടുള്ള 14 ഘടകങ്ങളും ഉണ്ടെന്ന് ഇപ്പോൾ കാണാൻ കഴിയും ഇപ്പോൾ നമുക്ക് നോഡ് നിർദ്ദിഷ്ട ആട്രിബ്യൂട്ടുകൾ നോക്കാം അത് ശരാശരി ക്ലസ്റ്ററിംഗ് കോഫിഫിഷ്യന്റ് ആണ് നമുക്ക് റൺ ക്ലിക്ക് ചെയ്യാം നോഡുകളുടെ ഈജൻ വെക്റ്റർ കേന്ദ്രത്വവും നമുക്ക് കണക്കാക്കാം ഒരിക്കൽ ഈ അളവുകൾ കണക്കാക്കിയാൽ ഇവയിൽ പലതും ഡാറ്റാ ലബോറട്ടറിയിൽ ലഭ്യമാകും കൂടാതെ ദൃശ്യവൽക്കരണത്തിനും ഇത് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഈജൻ വെക്റ്റർ സെൻട്രാലിറ്റി കംപ്യൂട്ട് ചെയ്ത ശേഷം ആ പ്രത്യേക ആട്രിബ്യൂട്ടിനെ അടിസ്ഥാനമാക്കി നോഡുകളുടെ വലുപ്പം മാറ്റാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇടത് പാനലിൽ നമുക്ക് അത് കാണാം നമുക്ക് നോഡുകളിലേക്കും ആട്രിബ്യൂട്ടുകളിലേക്കും പോകാം നമ്മൾ ഇപ്പോൾ കണക്കാക്കിയ എല്ലാ അളവുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും ശക്തമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഘടകങ്ങൾ ഐജൻവെക്റ്റർ കേന്ദ്രീകരണം ക്ലസ്റ്ററിംഗ് കോ എഫിഷ്യന്റ് മുതലായവ ഈ ഓപ്ഷനുകളൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് ഫിൽട്ടറുകളും സ്റ്റാറ്റിസ്റ്റിക് ടാബും ചുരുക്കി ഡാറ്റയെ വിഷ്വലൈസ് ചെയ്ത് നോക്കാം നിലവിൽ ഡാറ്റ വളരെ സാന്ദ്രമായതിനാൽ നോഡുകളും അരികുകളും എല്ലാം കൂടിച്ചേർന്നതാണ് അതിനാൽ ഡാറ്റ കൂടുതൽ കാര്യക്ഷമമായി കാണുന്നതിന് നമുക്ക് ഒരു ലേഔട്ട് തിരഞ്ഞെടുക്കാം ഒരു ലേഔട്ട് ഡ്രോപ്പ് ഡൌൺ മെനു തിരഞ്ഞെടുക്കുക ക്ലിക്ക് ചെയ്ത് Fruchterman Reingold അൽഗോരിതം തിരഞ്ഞെടുക്കുക തുടർന്ന് റൺ ക്ലിക്ക് ചെയ്യുക അൽഗോരിതം കുറച്ചുനേരം പ്രവർത്തിക്കട്ടെ അത് സ്ഥിരതയാർന്നതായി കാണാൻ തുടങ്ങിയ ശേഷം സ്റ്റോപ്പിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഞങ്ങൾ കണക്കാക്കിയ വിവിധ ആട്രിബ്യൂട്ടുകളെ അടിസ്ഥാനമാക്കി നോഡുകളുടെയും എഡ്ജുകളുടെയും വലുപ്പം ക്രമീകരിക്കാം നമുക്ക് ആദ്യം നോഡുകളുടെ വലുപ്പം മാറ്റാം അപ്പിയറൻസ് ടാബിൽ മുകളിൽ ഇടതുവശത്ത് നോഡുകളിൽ ക്ലിക്കുചെയ്യുക തുടർന്ന് വലത് വശത്തെ ഓപ്ഷനുകളിൽ നിന്ന് വലുപ്പം തിരഞ്ഞെടുക്കുക ആട്രിബ്യൂട്ടിൽ ക്ലിക്കുചെയ്യുക നമുക്ക് ഒരു ആട്രിബ്യൂട്ട് തിരഞ്ഞെടുക്കാം നിർദ്ദിഷ്ട നോഡിന് എത്ര അനുയായികളുണ്ട് എന്നതിനനുസരിച്ച് നോഡുകളുടെ വലുപ്പം വർദ്ധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇരിക്കട്ടെ ഫോളോവേഴ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യുക ചില നോഡുകൾ ഇപ്പോൾ വലുതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ട്വിറ്റർ നെറ്റ്വർക്കിൽ വലിയൊരു കൂട്ടം ഫോളോവേഴ്സും സെലിബ്രിറ്റി അക്കൌണ്ടുകളുമുള്ള നോഡുകളായിരിക്കാം ഇവ നോഡ് ലേബലുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിലൂടെ ഇവ ഏത് ഉപയോക്താക്കളാണെന്ന് നമുക്ക് കാണാൻ കഴിയും നോഡ് ലേബലുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് നോഡ് ലേബലുകൾ എന്ന് കാണുന്ന ചുവടെയുള്ള പാനലിലെ ടിയിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഈ ഉപയോക്താക്കൾ ആരാണെന്ന് കാണാൻ കഴിയും ഈ പ്രത്യേക നോഡ് ട്വിറ്ററിന്റെ ഔദ്യോഗിക അക്കൌണ്ടാണ് ഇത് യു ട്യൂബ് ആണ് നമുക്ക് നോഡുകൾ വലുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാരാമീറ്റർ മാറ്റാൻ ശ്രമിക്കാം ഡ്രോപ്പ് ഡൌൺ മെനുവിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇത്തവണ ഇൻ ഡിഗ്രി തിരഞ്ഞെടുക്കാം അപ്ലൈ ക്ലിക്കുചെയ്യുക ഇത് എന്റെ സ്വന്തം ട്വിറ്റർ ഡാറ്റയുടെ രണ്ട് ഹോപ്പ് നെറ്റ്വർക്കായതിനാൽ എന്റെ രണ്ട് ഹോപ്പ് ട്വിറ്റർ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന അക്കൌണ്ടുകൾ ഇവയാണെന്ന് ഇൻ ഡിഗ്രി സൂചിപ്പിക്കും ഈ മൂല്യങ്ങൾ മാറ്റിക്കൊണ്ട് നമുക്ക് നോഡുകളുടെ ഏറ്റവും കുറഞ്ഞതും പരമാവധി വലുപ്പവും ക്രമീകരിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ വലുപ്പം 5 നിന്ന് 10 വരെയാക്കി ഏറ്റവും ചെറിയ നോഡ് പോലും പരമാവധി വലുപ്പം ആക്കാനും ഇപ്പോൾ 70 ആക്കാം അപ്ലൈ ക്ലിക്കുചെയ്യുക എല്ലാ നോഡുകളുടെയും വലുപ്പം ഇപ്പോൾ വലുതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ഇപ്പോൾ ഗ്രാഫ് കൂടുതൽ ദൃശ്യമാക്കുന്നതിന് നോഡുകളുടെ നിറം മാറ്റാൻ ശ്രമിക്കാം ഇപ്പോൾ വീണ്ടും നോഡുകൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വലതുവശത്ത് നിന്ന് വലുപ്പത്തിന് പകരം കളർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് ആട്രിബ്യൂട്ടുകളിലേക്ക് പോകുക ഡ്രോപ്പ് ഡൌൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുക അവർ ഉൾപ്പെടുന്ന സമൂഹത്തെ അടിസ്ഥാനമാക്കി നമുക്ക് നോഡുകൾക്ക് നിറം നൽകാം അത് ചെയ്യുന്നതിന് ഞങ്ങൾ ഓപ്ഷൻ മോഡുലാരിറ്റി ക്ലാസ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നിങ്ങൾ മോഡുലാരിറ്റി ക്ലാസ് ഓപ്ഷനിൽ ക്ലിക്കുചെയ്യുമ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിലും എത്ര നോഡുകൾ നിലവിലുണ്ടെന്ന് അത് നിങ്ങളോട് പറയും അപ്ലൈ ക്ലിക്കുചെയ്യുക ഇപ്പോൾ നോഡുകൾ നന്നായി കാണാം ഗ്രാഫ് കേന്ദ്രീകരിച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൂം ചെയ്യാൻ കഴിയും നമുക്ക് കുറച്ച് ഓപ്ഷനുകൾ കൂടി നോക്കാം നോഡുകളിൽ A ഓപ്ഷനിൽ ക്ലിക്കുചെയ്ത് നമുക്ക് ലേബൽ നിറം മാറ്റാനും കഴിയും ഡ്രോപ്പ് ഡൌൺ മെനുവിൽ ലഭ്യമായ ആട്രിബ്യൂട്ടുകളെ അടിസ്ഥാനമാക്കി നമുക്ക് ലേബലുകൾക്ക് നിറം നൽകാം നമുക്ക് ഔട്ട് ഡിഗ്രി തിരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്യാം ലേബലുകൾ ദൃശ്യമല്ലെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് കളർ പാലറ്റ് മാറ്റാം T ഓപ്ഷനിൽ ക്ലിക്കുചെയ്ത് നമുക്ക് ലേബലുകളുടെ വലുപ്പം മാറ്റാനും കഴിയും T യിൽ ക്ലിക്കുചെയ്യുക ഒന്നുകിൽ നമുക്ക് എല്ലാ നോഡ് ലേബലുകളുടെയും വലുപ്പം മാറ്റാൻ കഴിയും നമുക്ക് 1 മുതൽ 5 വരെ നീങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ടെക്സ്റ്റ് വളരെ വലുതായിത്തീരുന്നു നമുക്ക് ഇത് 1 ലേക്ക് മാറ്റാം ആട്രിബ്യൂട്ട് ടാബിൽ ക്ലിക്കുചെയ്ത് നമുക്ക് നോഡ് ലേബലുകളുടെ വലുപ്പം മാറ്റാനും തുടർച്ചയായ പ്രവർത്തനം നടത്താനും കഴിയും നമുക്ക് ഔട്ട് ഡിഗ്രി തിരഞ്ഞെടുത്ത് അപ്ലൈ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഉയർന്ന ഔട്ട് ഡിഗ്രി ഉള്ള നോഡുകൾക്ക് ഒരു വലിയ ലേബൽ ഉണ്ട് അതായത് മറ്റ് ഉപയോക്താക്കളെ വളരെയധികം പിന്തുടരുന്ന ഉപയോക്താക്കൾക്ക് ഒരു വലിയ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും ഈ സാഹചര്യത്തിൽ എന്റെ ട്വിറ്റർ ഡാറ്റയിൽ സൃഷ്ടി അണ്ടർസ്കോർ ഗുപ്ത 14 എന്ന പ്രത്യേക അക്കൌണ്ട് ആണ് പരമാവധി ഉപയോക്താക്കളെ പിന്തുടരുന്നത് നമ്മൾ ഇൻ ഡിഗ്രി തിരഞ്ഞെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് ഇൻ ഡിഗ്രി തിരഞ്ഞെടുത്ത് അപ്ലൈ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ലേബലുകളുടെ വലുപ്പം നോഡുകളുടെ വലുപ്പത്തിന് അനുസൃതമായിരിക്കും കാരണം നമ്മൾ നമ്മുടെ നോഡുകളുടെ വലുപ്പം അങ്ങനെയാണ് സൈസ് ചെയ്തിരിക്കുന്നത് എല്ലാ നോഡുകളും ഒരേ വലുപ്പത്തിലാക്കാനായി നമുക്ക് നോഡ് ലേബലുകളെ ഒരേ ആട്രിബൂട്ടിലേക്ക് മാറ്റാം ഇപ്പോൾ നമുക്ക് എല്ലാ നോഡ് ലേബലുകളും 1 ന് തുല്യമായ അതേ വലുപ്പത്തിലേക്ക് തിരികെ ആക്കി ഈ ഗ്രാഫുകളുടെ ദൃശ്യവൽക്കരണം ക്രമീകരിക്കാൻ നമുക്ക് കൂടുതൽ ഓപ്ഷനുകൾ നോക്കാം അരികുകളുടെ രൂപവും നമുക്ക് മാറ്റാം അരികുകളുടെ നിറവും ലേബൽ നിറവും ലേബൽ വലുപ്പവും നമുക്ക് മാറ്റാം ഇവിടെ അരികുകൾക്കായി നമുക്ക് ലേബലുകളൊന്നുമില്ല അതിനാൽ അരികുകളുടെ നിറത്തിന് നമുക്ക് ഇഷ്ടമുള്ളത്ര മാറ്റങ്ങൾ വരുത്താം വർണ്ണത്തിൽ ക്ലിക്കുചെയ്യുക തുടർന്ന് ലഭ്യമായ ആട്രിബ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുക നമ്മുടെ കാര്യത്തിൽ ഇത് ഭാരമാണ്അപ്ലൈ ക്ലിക്കുചെയ്യുക എല്ലാ അരികുകളിലും ഒരേ നിറം നൽകാൻ യുണീക്ക് വീണ്ടും ക്ലിക്കുചെയ്ത് എഡ്ജ് നിറം തിരഞ്ഞെടുത്ത് അപ്ലൈ ക്ലിക്കുചെയ്യുക ഇത് എല്ലാ അരികുകളും ചാരനിറത്തിൽ കാണപ്പെടും ലേഔട്ട് ടാബിൽ ലഭ്യമായ മറ്റ് ലേഔട്ടുകൾ പ്രവർത്തിപ്പിക്കാനും നിങ്ങൾക്ക് ശ്രമിക്കാം ഉദാഹരണത്തിന് നമുക്ക് സങ്കോചം പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാം സങ്കോചം നിലവിലെ ലേഔട്ട് ഇലെ ഗ്രാഫുകൾ സൂംഔട്ട് ചെയ്യും നമുക്ക് ഫോഴ്സ് അറ്റ്ലസ് പരീക്ഷിക്കാം ഗ്രാഫ് സ്ഥിരപ്പെടുത്തിയ ശേഷം ഗ്രാഫ് കൂടുതൽ വിശകലനം ചെയ്യാൻ സ്റ്റോപ്പിൽ ക്ലിക്കുചെയ്യുക നിങ്ങളുടെ ഗ്രാഫ് സ്ക്രീനിൽ നിന്ന് പോയാൽ ഈ ചെറിയ ഭൂതക്കണ്ണാടി കണ്ടെത്തുക അത് നിങ്ങളുടെ ശൂന്യമായ സ്ഥലത്ത് ഗ്രാഫ് കേന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുന്നു നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക മേഖലയിലെ ഗ്രാഫിൽ സൂം ചെയ്യാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുക നമുക്ക് വീണ്ടും Fruchterman Reingold അൽഗോരിതം തിരഞ്ഞെടുത്ത് റൺ ക്ലിക്ക് ചെയ്യുക ഗ്രാഫ് സ്ഥിരപ്പെട്ടതായി തോന്നുമ്പോൾ സ്റ്റോപ്പിൽ ക്ലിക്കുചെയ്യുക വലുതാക്കിയ ഗ്രാഫിൽ നിന്ന് സൂംഔട്ട് ചെയ്യാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക ഇപ്പോൾ നമുക്ക് ഗെഫി നൽകുന്ന കൂടുതൽ ദൃശ്യവൽക്കരണ ഓപ്ഷനുകൾ നോക്കാം ലേഔട്ട്ഇന്റെ ഇടതുവശത്തുള്ള ഓപ്ഷനുകൾ നമുക്ക് നോക്കാം നേരിട്ടുള്ള തിരഞ്ഞെടുക്കൽ ഉപകരണമാണ് ആദ്യ ഓപ്ഷൻ നിർദ്ദിഷ്ട നോഡുകളെയും അവയുടെ അയൽക്കാരെയും തിരഞ്ഞെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഡയറക്ട് സെലക്ഷൻ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ഒരു പ്രത്യേക നോഡിൽ ഹോവർ ചെയ്യുക ഉദാഹരണത്തിന് നമ്മൾ ഈ നോഡിന് മുകളിൽ ഹോവർ ചെയ്യുമ്പോൾ അത് ആ പ്രത്യേക നോഡിനെയും അതിൻ്റെ അയൽക്കാരെയും തിരഞ്ഞെടുക്കുന്നു N തിരഞ്ഞെടുത്ത ഒരു ഓപ്ഷൻ കാരണം ഇപ്പോൾ അതിന്റെ അയൽക്കാർ യാന്ത്രികമായി തിരഞ്ഞെടുക്കപ്പെടുന്നു നമുക്ക് ആ ഓപ്ഷൻ നോക്കാം താഴെയുള്ള പാനലിലെ മുകളിലേക്കുള്ള അമ്പടയാളം ശ്രദ്ധിക്കുക അത് വികസിപ്പിക്കുക ഗ്ലോബലിലേക്ക് പോകുക ഓട്ടോ സെലക്ട് നെയ്ബർ ഓപ്ഷൻ ടിക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണും അത് അൺചെക്ക് ചെയ്ത് താഴേക്കുള്ള അമ്പടയാളം വീണ്ടും അമർത്തുക ഇപ്പോൾ വീണ്ടും മുൻ നോഡിന് മുകളിൽ ഹോവർ ചെയ്യുക ഇത്തവണ ഈ പ്രത്യേക നോഡിന്റെ അയൽക്കാരെ തിരഞ്ഞെടുക്കില്ല ഞങ്ങൾക്ക് ആ ഓപ്ഷൻ പിൻവലിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിലേയ്ക്കുള്ള അമ്പടയാളം വീണ്ടും വരുന്നു വീണ്ടും ഓട്ടോ സെലക്ട് നെയ്ബർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇപ്പോൾ അതുതന്നെ സംഭവിക്കുന്നത് നിങ്ങൾ കാണും നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം അടുത്ത ഓപ്ഷൻ ചതുരാകൃതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് ചതുരാകൃതിയിലുള്ള തിരഞ്ഞെടുപ്പിൽ ക്ലിക്കുചെയ്യുക നോഡിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുക്കാൻ ഇത് നിങ്ങളെ പ്രാപ്തമാക്കും ആ പ്രത്യേക പ്രദേശത്തെ എല്ലാ നോഡുകളെയും അവയുടെ അയൽക്കാരെയും തിരഞ്ഞെടുക്കാൻ ഒരു ചതുരാകൃതിയിലുള്ള പ്രദേശം വലിച്ചിട്ട് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത ചതുരാകൃതിയിലുള്ള പ്രദേശത്തെ നിർദ്ദിഷ്ട നോഡുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും താഴെയുള്ള പാനലിലെ അമ്പടയാളത്തിൽ ക്ലിക്കുചെയ്ത് സ്വയം തിരഞ്ഞെടുത്ത അയൽക്കാരനെ അൺചെക്ക് ചെയ്യാം താഴേക്കുള്ള അമ്പടയാളത്തിൽ ക്ലിക്കുചെയ്യുക ഈ സമയം നിങ്ങൾ ഒരു പ്രത്യേക പ്രദേശം തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രദേശത്തിനുള്ളിലെ നോഡുകൾ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ ഈ ഗ്രാഫിൽ ഈ രണ്ട് പ്രത്യേക നോഡുകൾ പരസ്പരം വളരെ അടുത്താണെന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ ക്രമീകരണം നടത്താനും ഈ നോഡുകൾ അൽപ്പം അകലെയാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇരിക്കട്ടെ അത് ചെയ്യുന്നതിന് ഡ്രാഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം പിന്നെ മറ്റൊന്നിനൊപ്പം ഓവർലാപ്പുചെയ്യുന്ന നോഡിലേക്ക് പോകുകയും അത് അല്പം അകലെ വലിച്ചിടുകയും ചെയ്യുന്നു നോഡുകളുടെ മാനുവൽ അഡ്ജസ്റ്റ്മെന്റിനായി ഡ്രാഗ് ടൂൾ ഉപയോഗിക്കുന്നു നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം നിർദ്ദിഷ്ട നോഡുകൾ തിരഞ്ഞെടുത്ത് നോഡുകൾ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പെയിന്റർ ടൂളാണ് അടുത്ത ഓപ്ഷൻ പെയിന്റർ നോഡുകൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പുതിയ നോഡിന് നൽകാൻ ആഗ്രഹിക്കുന്ന നിറം തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ പ്രത്യേക നോഡിലേക്ക് പോയി അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് നമ്മൾ തിരഞ്ഞെടുത്ത നിറം നൽകും നോഡ് പെൻസിൽ ഉപയോഗിച്ച് അധിക നോഡുകൾ ചേർക്കാനുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം നോഡ് പെൻസിൽ തിരഞ്ഞെടുത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും ക്ലിക്കുചെയ്യുക ഇത് ഒരു നോഡ് സൃഷ്ടിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ ക്ലിക്കുകളുടെ എണ്ണം പോലെ നിങ്ങൾക്ക് നിരവധി നോഡുകൾ ചേർക്കാൻ കഴിയും എഡ്ജ് പെൻസിലിൽ ക്ലിക്കുചെയ്ത് നിർദ്ദിഷ്ട അറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതുതായി സൃഷ്ടിച്ച നോഡുകൾക്കിടയിൽ അറ്റങ്ങൾ ചേർക്കാനും കഴിയും നിങ്ങൾ ആദ്യം സോഴ്സ് നോഡും തുടർന്ന് ടാർഗെറ്റ് നോഡും തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമുക്ക് കുറച്ച് അരികുകൾ കൂടി സൃഷ്ടിക്കാം എഡിറ്റ് ടൂൾ തിരഞ്ഞെടുത്ത് നമുക്ക് നോഡ് ആട്രിബ്യൂട്ടുകൾ എഡിറ്റുചെയ്യാനും കഴിയും എഡിറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു പ്രത്യേക നോഡിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഇടത് പാനലിലെ നോഡുകളുടെ സവിശേഷതകൾ വിശദമാക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് നോഡ് പ്രോപ്പർട്ടികൾ മാറ്റാം നമുക്ക് നോഡിന്റെ വലുപ്പം 10 ൽ നിന്ന് 25 ആയി മാറ്റാം നോഡിന്റെ വലുപ്പം വർദ്ധിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ നിങ്ങൾക്ക് മറ്റ് പാരാമീറ്ററുകൾ മാറ്റാൻ കഴിയും ചുവടെയുള്ള ബൾബ് ഐക്കണിൽ ക്ലിക്കുചെയ്ത് നിങ്ങൾക്ക് ഗെഫി വിഷ്വലൈസേഷന്റെ പശ്ചാത്തല നിറം മാറ്റാനും കഴിയും ബൾബ് ഐക്കണിൽ ക്ലിക്കുചെയ്യുന്നത് കറുപ്പും വെളുപ്പും പശ്ചാത്തലങ്ങൾക്കിടയിൽ ടോഗിൾ ചെയ്യും ക്യാമറ ബട്ടണിൽ ക്ലിക്കുചെയ്ത് ജനറേറ്റ് ചെയ്ത വിഷ്വലൈസേഷന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ ഗെഫി നിങ്ങളെ അനുവദിക്കുന്നു ഇത് പിഎൻജി ഫോർമാറ്റിൽ ഒരു സ്ക്രീൻ ഷോട്ട് സൃഷ്ടിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് ഇത് സേവ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ താഴെയുള്ള പാനലിലെ ഓപ്ഷനുകൾ നമുക്ക് കൂടുതൽ വിശദമായി നോക്കാം താഴെയുള്ള മുകളിലെ അമ്പടയാളം ഉപയോഗിച്ച് താഴെയുള്ള പാനൽ വികസിപ്പിക്കുക ഗ്ലോബൽ ക്ലിക്ക് ചെയ്യുക പശ്ചാത്തല വർണ്ണം കറുപ്പും വെളുപ്പും മാത്രമല്ല ഇഷ്ടമുള്ള ഏതു നിറവും ആക്കാൻ കഴിയും പശ്ചാത്തല വർണ്ണത്തിൽ ക്ലിക്കുചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് നിറവും തിരഞ്ഞെടുക്കാം പശ്ചാത്തല വർണ്ണ ഓപ്ഷനിൽ വീണ്ടും ക്ലിക്കുചെയ്ത് നിങ്ങൾക്ക് അത് ഡിഫോൾട്ട് നിറത്തിലേക്ക് മാറ്റാം നമുക്ക് എഡ്ജ്സ് ടാബിൽ ക്ലിക്ക് ചെയ്യാം ഷോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഓപ്ഷൻ അൺചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ അരികുകളും അദൃശ്യമായിരിക്കും അരികുകൾ ദൃശ്യമാകുന്നതിന് അത് തിരികെ ക്ലിക്കുചെയ്യുക ഈ പാനലിൽ നിന്ന് അരികുകളുടെ നിറം നോഡുകൾ പോലെ തന്നെ നിലനിർത്തണോ വേണ്ടയോ എന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ നോഡ് കളർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാ അരികുകളും അവ ഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രത്യേക നോഡുകളുടെ നിറമായി മാറും ചുവടെയുള്ള ഫോണ്ട് മൂല്യത്തിൽ ക്ലിക്കുചെയ്ത് നിങ്ങൾക്ക് നോഡ് ലേബലുകളുടെ ഫോണ്ട് മാറ്റാനും കഴിയും നിങ്ങൾക്ക് ആവശ്യമുള്ള പുതിയ ഫോണ്ട് തിരഞ്ഞെടുത്ത് ഒകെ ക്ലിക്കുചെയ്യുക ഇത് എല്ലാ നോഡ് ലേബലുകൾക്കും ഫോണ്ട് മാറ്റും ഇപ്പോൾ നമുക്ക് വലതുവശത്തുള്ള ഗെഫി യിലെ ഫിൽട്ടറുകൾ ടാബ് നോക്കാം ഫിൽട്ടറുകൾ ടാബിൽ ക്ലിക്ക് ചെയ്യുക നിർദ്ദിഷ്ട നോഡുകളും അരികുകളും തിരഞ്ഞെടുക്കാൻ നമുക്ക് ഒരു ഫിൽട്ടർ തിരഞ്ഞെടുക്കാം നമുക്ക് ആട്രിബ്യൂട്ട് ഫിൽട്ടറുകളിൽ ക്ലിക്ക് ചെയ്ത് റേഞ്ചിൽ ക്ലിക്ക് ചെയ്യാം ഫോളോവേഴ്സിൽ ക്ലിക്ക് ചെയ്ത് ശ്രേണി നിർവ്വചിക്കുക നോഡുകളുടെ എണ്ണം നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇരിക്കട്ടെ 8 മുതൽ 4 ദശലക്ഷം വരെ ഫോളോവേഴ്സ് ഉള്ള നോഡുകൾ നിലനിർത്താൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഈ സ്ലൈഡറുകൾ ഉപയോഗിക്കുക ഫിൽട്ടറിൽ ക്ലിക്കുചെയ്യുക നമ്മൾ നിർവ്വചിച്ച പ്രത്യേക ശ്രേണിയിൽ പെടാത്ത നോഡുകളെ ഈ പ്രവർത്തനം നീക്കം ചെയ്യും നമുക്ക് അധിക ഫിൽട്ടറുകളും ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഔട്ട് ഡിഗ്രി അടിസ്ഥാനമാക്കി നമുക്ക് ഒരു ഫിൽട്ടർ തിരഞ്ഞെടുക്കാം അന്വേഷണങ്ങളിൽ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് മൂല്യങ്ങൾ മാറ്റാൻ സ്ലൈഡർ വലിച്ചിടുക 24 മുതൽ 116 വരെ ഔട്ട് ഡിഗ്രി ഉള്ള കുറച്ച് നോഡുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും സ്റ്റോപ്പിൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ നെറ്റ്വർക്കും കാണാൻ കഴിയും ഔട്ട് ഡിഗ്രി ക്രമീകരണങ്ങളുടെ ശ്രേണിയുടെ മൂല്യം നമുക്ക് മാറ്റാം ഓപ്പറേറ്റർ ഫിൽട്ടറിനെക്കുറിച്ചും നമ്മൾ പഠിച്ചുവെന്ന് ഓർക്കുക അന്വേഷണ ടാബിലെ ഫിൽട്ടറുകൾ സംയോജിപ്പിക്കുന്നതിന് നമുക്ക് ഒന്നിലധികം പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാം നമുക്ക് ഇൻറ്റർസെക്ഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കാം ഇതിനകം നിലവിലുള്ള ഫിൽട്ടറുകൾ തിരഞ്ഞെടുക്കുക അവ ഔട്ട് ഡിഗ്രി അടിസ്ഥാനമാക്കിയുള്ള ശ്രേണിയും അനുയായികളെ അടിസ്ഥാനമാക്കിയുള്ള ശ്രേണിയും ഇൻറ്റർസെക്ഷൻ ഫിൽട്ടറിലെ ഉപ ഫിൽട്ടറുകളായി തിരഞ്ഞെടുക്കുക ഇത് 4 മുതൽ 116 വരെ ഔട്ട് ഡിഗ്രി ഉള്ള നോഡുകളുടെയും 8 മുതൽ 4 1 ദശലക്ഷം വരെ ഫോളോവേഴ്സ് ഉള്ള നോഡുകളുടെയുംരണ്ട് ഫിൽട്ടറുകളുടെ ഓവർലാപ്പ് നൽകും നിങ്ങൾ സ്റ്റോപ്പിൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ നെറ്റ്വർക്കും കാണാൻ കഴിയും സമാനമായ രീതിയിൽ നിങ്ങൾക്ക് മറ്റ് പല ഫിൽട്ടറുകളും ഉപയോഗിക്കാം ആദ്യം ഫിൽട്ടർ പ്രയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത ഗ്രാഫ് സംരക്ഷിക്കാനും തുടർന്ന് ഈ നിർദ്ദിഷ്ട ഗ്രാഫ് സംരക്ഷിക്കാൻ സ്ക്രീൻഷോട്ട് ടൂളിൽ ക്ലിക്കുചെയ്യാനും കഴിയും ഇപ്പോൾ നമുക്ക് ഫിൽട്ടറുകൾ ടാബ് ചുരുക്കി ഗെഫിയുടെ പ്രിവ്യൂ ടാബ് നോക്കാം പ്രിവ്യൂ ടാബ് മുകളിൽ വലതുവശത്തായിരിക്കും ജനറേറ്റുചെയ്ത ഗ്രാഫിന്റെ ദൃശ്യവൽക്കരണം ക്രമീകരിക്കുന്നതിനുള്ള ഒരു വിപുലമായ ഓപ്ഷൻ പ്രിവ്യൂ ടാബ് നൽകുന്നു പുതുക്കലിൽ ക്ലിക്കുചെയ്തുകഴിഞ്ഞാൽ നിങ്ങളുടെ വലതുവശത്ത് ഗ്രാഫ് വിഷ്വലൈസേഷൻ കാണാൻ കഴിയും ഈ ഗ്രാഫ് വിഷ്വലൈസേഷനിൽ അരികുകൾ വളഞ്ഞിരിക്കുന്നു കാരണം അതാണ് സ്ഥിരസ്ഥിതി ഓപ്ഷനുകളിൽ ഉള്ളത് അരികുകളിൽ സ്ഥിരസ്ഥിതി പ്രീസെറ്റുകളിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക വളഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ വീണ്ടും പുതുക്കുക ക്ലിക്കുചെയ്യുക ഇപ്പോൾ അറ്റങ്ങൾ നേരെയായിരിക്കും വളഞ്ഞതല്ല എല്ലാ അരികുകളും ഒരേ കട്ടിയുള്ളതായിരിക്കണമെങ്കിൽ റീസ്കെയിൽ വെയ്റ്റിൽ ക്ലിക്കുചെയ്ത് പുതുക്കുന്നതിൽ ക്ലിക്കുചെയ്യുക ഇത് എല്ലാ അരികുകളും ഒരേ കട്ടിയുള്ളതാക്കും ഇപ്പോൾ സ്ഥിരസ്ഥിതിയായി നമുക്ക് നോഡ് ലേബലുകൾ കാണാൻ പോലും കഴിയില്ല നോഡ് ലേബലുകൾ കാണുന്നതിന് നോഡ് ലേബലുകൾക്ക് കീഴിലുള്ള ഷോ ലേബലുകൾ ഓപ്ഷനിൽ ക്ലിക്കുചെയ്യുക വീണ്ടും പുതുക്കൽ അമർത്തുക ഇപ്പോൾ നിങ്ങൾക്ക് നോഡ് ലേബലുകൾ കാണാനും നിങ്ങളുടെ ഫോണ്ട് വലുപ്പം ക്രമീകരിക്കാനും കഴിയും നമുക്ക് ഫോണ്ട് സൈസ് 9 ആക്കി റിഫ്രഷ് അമർത്താം പ്രിവ്യൂ ടാബിന് ചുവടെ ഇടതുവശത്ത് സ്വന്തം കയറ്റുമതി കമാൻഡ് ഉണ്ട് നിങ്ങൾ എക്സ്പോർട്ട് കമാൻഡിൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ ജനറേറ്റ് ചെയ്ത ഫയൽ pdf ഫോർമാറ്റിലോ png അല്ലെങ്കിൽ svg ലോ സൂക്ഷിക്കാൻ ഇത് നിരവധി ഓപ്ഷനുകൾ നൽകും വിഷ്വലൈസേഷൻ കാണാൻ ഇപ്പോൾ നമുക്ക് അവലോകന ടാബിലേക്ക് പോകാം ഡാറ്റാ ലബോറട്ടറിയിലെ ഒരു പ്രത്യേക നോഡിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തിരഞ്ഞെടുത്ത ടൂളിലേക്ക് പോകാം ഒരു പ്രത്യേക നോഡിൽ ഹോവർ ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് സെലക്ട് ഇൻ ഡാറ്റ ലബോറട്ടറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഡാറ്റാ ലബോറട്ടറിയിലേക്ക് പോവുകയാണെങ്കിൽ ആ പ്രത്യേക വരി ഹൈലൈറ്റ് ചെയ്യപ്പെടും നിങ്ങൾക്ക് പ്രത്യേക നോഡും നോഡുകളുടെ ടാബും കൂടുതൽ വിശദമായി നോക്കാവുന്നതാണ് ഡാറ്റാ ലബോറട്ടറിയിൽ നിന്ന് വിഷ്വലൈസേഷനിൽ ഒരു പ്രത്യേക നോഡ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക തുടർന്ന് പ്രത്യേക വരിയിലേക്ക് പോകുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് അവലോകനം തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങൾ അവലോകനത്തിലേക്ക് പോകുമ്പോൾ ആ പ്രത്യേക നോഡ് ഹൈലൈറ്റ് ചെയ്യപ്പെടും ഡാറ്റാ ലബോറട്ടറിയിൽ നിന്ന് വിഷ്വലൈസേഷനിലേക്ക് നോഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും റഫർ ചെയ്യാനുള്ള എളുപ്പവഴിയാണിത് നമുക്ക് പ്രിവ്യൂ ടാബിലേക്ക് മടങ്ങാം ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നമുക്ക് കൂടുതൽ ഓപ്ഷനുകൾ നോക്കാം ടാഗ് ക്ലൌഡിൽ ക്ലിക്ക് ചെയ്ത് പുതുക്കുക അമർത്തുക ഇത് നോഡ് ലേബലുകളുടെ ഒരു ടാഗ് ക്ലൌഡ് സൃഷ്ടിക്കും നിലവിലെ വർക്ക്സ്പെയ്സ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു പുതിയ വർക്ക്സ്പെയ്സ്ഇൽ ഗ്രാഫിന്റെ ഒരു ഉപസെറ്റ് തിരഞ്ഞെടുക്കാനും കഴിയും അത് ചെയ്യുന്നതിന് നമുക്ക് വീണ്ടും ഫിൽട്ടർ ടാബിൽ ക്ലിക്കുചെയ്ത് ഒരു ഫിൽട്ടർ പ്രയോഗിക്കാം നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച ഫിൽട്ടർ തിരഞ്ഞെടുത്ത് ഫിൽട്ടറിൽ ക്ലിക്കുചെയ്യുക ഫിൽട്ടർ ടാബിന്റെ മുകളിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക അത് ഒരു പുതിയ വർക്സ്പേസിലേക്ക് ഫിൽട്ടർ ഗ്രാഫ് എക്സ്പോർട്ട് ചെയ്യുക ഓപ്ഷനിൽ ക്ലിക്കുചെയ്യുക ഇത് വർക്സ്പേസ് രണ്ട് എന്ന പുതിയ ജോലിസ്ഥലം സൃഷ്ടിക്കും വർക്ക്സ്പെയ്സ് രണ്ടിലേക്ക് പോകുക നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്ത ഫിൽട്ടറിനെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രാഫിന്റെ ഉപസെറ്റ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ ഇപ്പോൾ ഇതിന് നിലവിലുള്ള ഫിൽട്ടറുകളൊന്നും പ്രയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത് പ്രവർത്തിക്കാനും കൂടുതൽ ഫിൽട്ടറുകൾ പ്രയോഗിക്കാനും വിഷ്വലൈസേഷനിൽ മാറ്റം വരുത്താനും ഒരു പുതിയ ഗ്രാഫ് ആയി കണക്കാക്കാം ഒരു ഉദാഹരണമായി ഈ സബ്ഗ്രാഫിന്റെ ലേഔട്ട് മാറ്റാൻ ശ്രമിക്കാം ഫോഴ്സ് അറ്റ്ലസ് 2 ൽ ക്ലിക്ക് ചെയ്ത് അൽഗോരിതം പ്രയോഗിക്കുക ഗ്രാഫ് സ്ഥിരപ്പെടുത്തിയ ശേഷം സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്യുക ഫലമായുണ്ടാകുന്ന ഗ്രാഫ് കാണാൻ നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യാവുന്നതാണ് നോഡുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യാതിരിക്കുവാൻ നോ ഓവർലാപ് എന്നതിൽ ക്ലിക്കുചെയ്യാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പുതിയ ആട്രിബ്യൂട്ടുകളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് നോഡുകൾ വീണ്ടും കളർ ചെയ്യാനും കഴിയും ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സബ് ഗ്രാഫിനായി നമുക്ക് ഇൻ ഡിഗ്രിയിലുള്ള ഒരു ആട്രിബ്യൂട്ട് തിരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്യാം യഥാർത്ഥ ഗ്രാഫിന്റെ ഭാഗങ്ങൾ ഫിൽട്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വർക്സ്പേസുകൾ സൃഷ്ടിക്കാനും ഒരു ഗ്രാഫിന്റെ ഉപവിഭാഗത്തിൽ കൂടുതൽ വിശദമായ വിശകലനം നടത്താനും ഇതുവഴി കഴിയും യഥാർത്ഥ ഗ്രാഫിലേക്ക് തിരികെ പോകാൻ മുകളിൽ ഇടത് മൂലയിൽ നിന്ന് നിങ്ങൾക്ക് വർക്സ്പേസിൽ ക്ലിക്കുചെയ്യാം ഇത് ജെഫിയെക്കുറിച്ചുള്ള നമ്മുടെ ട്യൂട്ടോറിയൽ പൂർത്തിയാക്കുന്നു നോഡുകളും എഡ്ജുകളും ഉള്ള ഏത് ഡാറ്റയെയും അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് കൂടുതൽ ഗ്രാഫുകൾ സൃഷ്ടിക്കാൻ കഴിയും